ഹായ് സർവീസ് മാർക്കറ്റിംഗ് വിത്ത് എ പ്രാക്ടിക്കൽ അപ്രോച്ചിന്റെ ഈ സെഷനിലേക്ക് സ്വാഗതം ചാനൽ സംഘർഷം കൈകാര്യം ചെയ്യുന്ന പാഠം നമ്പർ 24 നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നു അതിനാൽ ചാനൽ സംഘർഷത്തിന് കാരണങ്ങൾ അല്ലെങ്കിൽ സഹകരണത്തിന്റെ തന്ത്രങ്ങൾ ഉണ്ട് അപ്പോൾ എന്താണ് ചാനൽ സംഘർഷത്തിന്റെ കാരണങ്ങൾ ലക്ഷ്യ സംഘർഷം ചാനൽ അവ്യക്തത ഗുണനിലവാരത്തിന്റെയും സ്ഥിരതയുടെയും നിയന്ത്രണം ശാക്തീകരണവും നിയന്ത്രണവും തമ്മിലുള്ള പിരിമുറുക്കം എന്നിവയാണ് അതിനാൽ ഇപ്പോൾ കൂടുതൽ വിശദമായി ചാനൽ സംഘർഷം നോക്കാം ചാനൽ സംഘർഷം നിയന്ത്രിക്കാൻ ചാനൽ സംഘർഷത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ചാനൽ സംഘർഷത്തിന്റെ സാധ്യമായ കാരണങ്ങൾ ഗോൾ വൈരുദ്ധ്യമാണ് പ്രിൻസിപ്പലിന്റെ തന്ത്രം കുറഞ്ഞ മാർജിനുകളിലും ഉയർന്ന അളവിലും വിപണിയിൽ തുളച്ചുകയറാം എന്നതാകുമ്പോൾ ചാനൽ അംഗങ്ങൾ ഉയർന്ന മാർജിനുകളിലും കുറഞ്ഞ വോള്യങ്ങളിലും വിപണി ഒഴിവാക്കാൻ ശ്രമിച്ചേക്കാം ആർക്കാണ് ലക്ഷ്യം തീരുമാനിക്കാനുള്ള അവകാശം ഉള്ളത് ആരാണ് അത് പിന്തുടരേണ്ടത് എന്നതായിരിക്കാം തർക്കം അതിനുശേഷം ചാനൽ അവ്യക്തത വരുന്നു പ്രിൻസിപ്പൽ വിശദാംശങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തിയിട്ടില്ലെങ്കിൽ ഫ്രാഞ്ചൈസിയുടെ പരസ്യത്തിനും പ്രമോഷനും ആരാണ് അവരുടെ പരിശീലനവും വികസനവും മാർക്കറ്റിംഗ് ഗവേഷണവും നൽകുന്നത് എന്ന കാര്യത്തിൽ അവ്യക്തതയുണ്ടാകാം പിന്നീട് ഗുണനിലവാരത്തിന്റെയും സ്ഥിരതയുടെയും നിയന്ത്രണം വരുന്നു ഇടനിലക്കാർ അവരുടെ ഫ്രാഞ്ചൈസി ബിസിനസ്സ് സ്വതന്ത്രമായി നടത്തുന്നതിന് സ്വന്തം ആശയങ്ങൾ ഉപയോഗിക്കാൻ തീരുമാനിച്ചേക്കാം കൂടാതെ പ്രിൻസിപ്പലിന്റെ കാലാനുസൃതമായ അളവെടുപ്പ് അവലോകനം പ്രതിഫലം ശിക്ഷ എന്നിവയ്ക്ക് വിധേയമായ കർശനമായ സവിശേഷതകൾ അവരുടെ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമായി കണക്കാക്കുകയും നിരാശയും ദേഷ്യവും ഉണ്ടാകുകയും ചെയ്യും ഇത് പരസ്പരവിരുദ്ധമായ പെരുമാറ്റത്തിന്റെ വികാസത്തിലേക്ക് നയിക്കുന്നു ശാക്തീകരണവും നിയന്ത്രണവും തമ്മിലുള്ള പിരിമുറുക്കം ഗുണനിലവാരവും സ്ഥിരതയും നിലനിർത്തുന്നതിനായി ഫ്രാഞ്ചൈസിയുടെ പ്രവർത്തനങ്ങളെ പ്രിൻസിപ്പൽ കർശനമായി നിയന്ത്രിക്കണോ അല്ലെങ്കിൽ പ്രിൻസിപ്പലിന്റെ സവിശേഷതകൾ മനസിലാക്കാനും വാങ്ങാനും അവരുടെ സംരംഭങ്ങളിൽ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം എന്തെങ്കിലും പുതുമകളും പ്രിൻസിപ്പലിനുള്ള മെച്ചപ്പെടുത്തലുകളും നിർദ്ദേശിക്കാനും അവരെ പ്രാപ്തരാക്കണമോ അതിനാൽ ഫ്രാഞ്ചൈസികളെ നിയന്ത്രിക്കുന്നതിൽ ഫ്രാഞ്ചൈസികളെ ശാക്തീകരിക്കുന്നതിനിടയിൽ പിരിമുറുക്കമുണ്ട് അതിനാൽ ഏതാണ് അവിടെ ഉണ്ടായിരിക്കേണ്ടത് മധ്യഭാഗം ആവശ്യമാണ് ഇപ്പോൾ ഏതൊരു സംഘട്ടന പരിഹാരത്തിന്റെയും അടിസ്ഥാനപരമായ കാര്യം സ്വന്തം ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിലും മറ്റുള്ളവരുടെ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിലുള്ള അശ്രദ്ധയുമാണ് ഈ 2 പരാമീറ്ററുകളെ അടിസ്ഥാനമാക്കി ചുവടെയുള്ള ചിത്രത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നതു പോലെ നിരവധി വൈരുദ്ധ്യ കൈമാറ്റ മനോഭാവങ്ങൾ രൂപപ്പെടാം അതിനാൽ ഇവിടെ x ആക്സിസിൽ നമുക്ക് മറ്റുള്ളവരോടുള്ള ശ്രദ്ധയും y ആക്സിസിൽ നമുക്ക് സ്വയം ആശങ്കയുമുണ്ട് അപ്പോൾ നമുക്ക് 4 ക്വാഡ്രന്റുകൾ ഉണ്ട് അതിനാൽ നമുക്ക് സ്വയം കൂടുതൽ താൽപ്പര്യവും അല്ലെങ്കിൽ സ്വയം താല്പര്യം കുറവുമുണ്ട് കൂടാതെ മറ്റുള്ളവരോട് നമുക്ക് ഉയർന്ന പരിഗണനയും മറ്റുള്ളവരോട് കുറഞ്ഞ താത്പര്യവുമുണ്ട് അതിനാൽ സ്വയം താൽപ്പര്യം ഉയർന്നതും മറ്റുള്ളവരോടുള്ള പരിഗണന കുറവും ആണെങ്കിൽ ദീർഘകാലാടിസ്ഥാനത്തിൽ മത്സരിക്കുന്ന മനോഭാവം ആയിരിക്കും ഇത് രണ്ട് കമ്പനികൾക്കും ദോഷം ചെയ്യും അടുത്തത് സ്വയം താൽപര്യവും കുറവാണ് മറ്റുള്ളവരോടുള്ള പരിഗണനയും കുറവാണ് അതിനർത്ഥം അവർ പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നു എന്നതാണ് സാധ്യമാകുന്നിടത്തോളം കാലം പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നു സംഘർഷം ഒഴിവാക്കുന്നു മറ്റുള്ളവരോടുള്ള ഉത്കണ്ഠ കൂടുതലും സ്വയം പരിപാലനം കുറവുമാണെങ്കിൽ അതിനർത്ഥം നിങ്ങൾ കക്ഷികളെ ഉൾകൊള്ളുന്നു എതിർകക്ഷിയുടെ ആവശ്യങ്ങൾ ഉൾക്കൊള്ളുന്നു എന്നതാണ് ഒടുവിൽ നമുക്ക് സ്വന്ത്വത്തോടും മറ്റുള്ളവരോടും ഉയർന്ന കരുതൽ ആണെങ്കിൽ അപ്പോൾ നമ്മൾ അടിസ്ഥാനപരമായി സഹകരിക്കുന്നു ഇതാണ് ഒരു സംഘർഷത്തിന്റെ ഫലമായി യഥാർത്ഥത്തിൽ ഒരു ബ്ലൂ ഓഷ്യൻ തന്ത്രം ഉപയോഗിച്ച് പരസ്പരം വിജയിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാനുള്ള ആഗ്രഹം എന്നാൽ ഉയർന്ന തലത്തിലുള്ള തന്ത്രത്തിൽ എത്തിച്ചേരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ 2 കക്ഷികൾക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയും അതായത് അവർ പകുതി മറ്റുള്ളവരോടുള്ള കരുതലിനും പകുതി സ്വയം കരുതലിനും ഇടയിൽ പോകുന്നു അതിനാൽ അവർ വിട്ടുവീഴ്ച ചെയ്യുന്നു തുടർന്ന് അവർ ആ രീതിയിൽ പ്രവർത്തിക്കുന്നു അതിനാൽ വൈരുദ്ധ്യമുള്ള കക്ഷികൾക്ക് ഏത് ഉദ്ദേശ്യം ഉണ്ടായിരിക്കണം മറ്റുള്ളവരെ അവഗണിച്ചുകൊണ്ട് അവർ സ്വന്തം ക്ഷേമമാണ് ലക്ഷ്യമിടുന്നതെങ്കിൽ അവർ പരസ്പരം മത്സരിക്കുകയും അവരുടെ ഉപഭോക്താക്കൾക്ക് പ്രയോജനം ലഭിക്കുകയും അവരുടെ ബിസിനസുകൾ കഷ്ടപ്പെടുകയും ചെയ്യും മറുവശത്ത് അവർ ഒരേ സമയം അവരുടെ ക്ഷേമവും മറ്റ് കക്ഷിയുടെ ക്ഷേമവും പരിപാലിക്കുകയാണെങ്കിൽ ലാഭം ഉണ്ടാക്കാൻ മൂല്യം നൽകുന്നതിന് സമാധാനപരമായി സഹകരിക്കാൻ കഴിയുന്ന വിജയ സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ അവർക്ക് കഴിയും ഒരു ഒത്തുതീർപ്പ് രണ്ട് പാർട്ടികളെയും ഭാഗികമായി സന്തോഷിപ്പിക്കുകയും ഭാഗികമായി ദുഃഖിപ്പിക്കുകയും ചെയ്യുന്നു സഹകരിക്കുമ്പോൾ സഹകാരി ബിസിനസ്സിലെ ഒരു പങ്കാളിയായി കണക്കാക്കപ്പെടുന്നു ഇനി നമുക്ക് സഹകരണത്തിനുള്ള തന്ത്രങ്ങളാണ് അതായത് അപ്പോൾ ലക്ഷ്യങ്ങളുടെ വിന്യാസം കൂടിയാലോചനയും സഹകരണവും പരസ്പര സംയോജനവും സഹായം എന്നിവയണ് അതിനാൽ ഇവ സഹകരണത്തിനുള്ള 3 തന്ത്രങ്ങളാണ് ഇപ്പോൾ ആദ്യ തന്ത്രം ലക്ഷ്യങ്ങളുടെ വിന്യാസമാണ് പ്രിൻസിപ്പലിനും അതിന്റെ സഹകാരികൾക്കും മാർക്കറ്റിംഗ് ഗവേഷണത്തെ അടിസ്ഥാനമാക്കി ഒരേ ബിസിനസ്സ് ലക്ഷ്യങ്ങളിലേക്ക് സ്വയം വിന്യസിക്കാനും തുടർന്ന് അതിൽ ഉറച്ചുനിൽക്കാനും കഴിയും ഇവ അളക്കുമ്പോൾ മാത്രമേ ഗുണമേന്മയും സ്ഥിരതയും ഉൽപാദനക്ഷമതയും കൈകാര്യം ചെയ്യാൻ കഴിയൂ എന്ന് സഹകാരികൾക്ക് മനസ്സിലാക്കാൻ കഴിയും അതനുസരിച്ച് മാനേജ്മെന്റുകളെ സഹകാരികളുമായുള്ള കരാറിന്റെ ഭാഗമാക്കണം എന്നിരുന്നാലും അളവെടുപ്പിനെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ സഹകാരികളെ സത്യസന്ധമായ തെറ്റുകൾക്കും പ്രകടനമില്ലായ്മയ്ക്കും ശിക്ഷിക്കുന്നതിനു പകരം ബെഞ്ച്മാർക്കുകളിൽ എത്താൻ സഹായിക്കുന്ന മനോഭാവത്തോടെ ഏറ്റെടുക്കണം അതുപോലെ ഇൻസെന്റീവുകളും അവാർഡുകളും സഹകാരികളെ പ്രധാന കമ്പനിയുമായി പൊരുത്തപ്പെടുന്ന ഉയർന്ന സേവന നിലവാരം നേടാൻ സഹായിക്കുന്നതിൽ വളരെ ദൂരം കൊണ്ടുപോകാൻ കഴിയും കൂടിയാലോചന സഹകരണം പരസ്പരസംയോജനം സഹകാരികളുമായി കൂടിയാലോചിച്ച് അവർ കഴിയുന്നിടത്തോളം എല്ലാ തീരുമാനങ്ങളും എടുക്കണം അങ്ങനെ എല്ലാ കക്ഷികളും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത തീരുമാനം വാങ്ങുകയും അതിനായി പ്രവർത്തിക്കുകയും വേണം ഇത് ഒരേ സമയം നിരവധി അവ്യക്തതകളും സംഘർഷങ്ങളും ഇല്ലാതാക്കും കക്ഷികൾക്ക് പരസ്പരം ബോർഡുകളിൽ ഇരിക്കാനായി പ്രതിനിധികൾ ആകാം അവസാനമായി ബിസിനസ് ക്യാപ്റ്റനെന്ന നിലയിൽ പ്രിൻസിപ്പൽ മാർക്കറ്റിംഗ് ഗവേഷണം പരസ്യം പ്രമോഷൻ എന്നിവ നടത്താനും ബിസിനസ്സ് പ്രക്രിയ തുടർച്ചയായി നടത്തുന്നതിന് ആവശ്യമായ വിഭവങ്ങളുമായി തന്റെ ഫ്രാഞ്ചൈസിയെ സഹായിക്കാനും നിക്ഷേപിക്കണം ഉദാഹരണത്തിന് ഗതാഗത കമ്പനികൾ ബിസിനസുകളുടെ സുഗമമായ പ്രവർത്തനത്തിനായി ടിക്കറ്റിംഗ് സോഫ്റ്റ്വെയർ അവരുടെ ഏജന്റുമാർക്ക് നൽകുന്നു അടുത്തതായി പാഠം നമ്പർ 25 മാനേജിങ് ഡിമാൻഡ് ആൻഡ് കപ്പാസിറ്റിയിലേക്ക് നമ്മൾ വരും അപ്പോൾ നമ്മൾ ഇത് ഇവിടെ അവസാനിപ്പിക്കുന്നു ഈ പാഠത്തിലൂടെ കടന്നു പോയത് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു